ഈ അദ്ധ്യായത്തിൽ ഒരു ഓപ്പറേഷനൽ ആംപ്ലിഫൈർ എങ്ങനെ ഇന്റഗ്രേറ്റർ ആയി ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഒരു ഇന്റഗ്രേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സംയോജന പ്രവർത്തനമാണ് ചെയ്യുന്നത് അത് കൊണ്ടാണ് ഓപ്ആംപ് അധ്യായത്തിന്റെ തുടക്കത്തിൽത്തന്നെ ഞാൻ പറഞ്ഞത് ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ആംപ് എങ്ങനെ ഇന്റഗ്രേറ്റർ ആയി പ്രവർത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഇന്റഗ്രേറ്റർ സർക്യൂട്ടിലെ ഔട്ട്പുട്ട് എന്നുപറയുന്നത് അനുപാതികം ആയിരിക്കുന്നത് ഇൻപുട്ട് സിഗ്നലിൻറെ സമയാനുസൃതമായ നെഗറ്റീവ് ഇന്റഗ്രലിനോടാണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് ഇവിടെ ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റർ ഉണ്ട് പിന്നെ ഫീഡ് ബാക്കിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഇന്റഗ്രേറ്ററിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഔട്ട്പുട്ട് എന്നുപറയുന്നത് അനുപാതികം ആയിരിക്കുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ സമയാനുസൃതമായ നെഗറ്റീവ് ഇന്റെഗ്രേലിനോട് ആണ് ഇൻവെർട്ടിങ് ടെര്മിനലിലേക്കുള്ള ഫീഡ് ബാക്കിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ കറണ്ട് ആണ് ആർ ഇൽകൂടെയും സി യിൽകൂടെയും പോകുന്നത് ഐ വൺ എന്നു പറയുന്ന കറണ്ട് ആണ് ആറിൽ കൂടെ പോകുന്നത് അത് തന്നെയാണ് സി യിൽ കൂടെയും പോകുന്നത് ഒരേ കറണ്ട് ഐ വൺ ആണ് ആർലും സി യിലും കൂടെ പോകുന്നത് ഒരേ കറണ്ട് ആണ് ആർലും സി യിലും കൂടെ പോകുന്നത് ഇവിടെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ അത് വി ഇൻ ഹരിക്കുക ആറ് സമം ഐ ഇൻ ഇവിടെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് ഇവിടെ വി ഓ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ കണക്കാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഞാൻ 1 RC സംയോജിപ്പിക്കണം സീറോ തൊട്ടു ടി വരെ ഈ ഒരു ഇക്വാഷനിൽ നിന്ന് എനിക്ക് വി സീറോ മെഷർ ചെയ്യണം അതിനായി വി സീറോയുടെ നിർവചനം ഉരുതിരിഞ്ഞ് എടുക്കണം ഇതാണ് എൻറെ ഇന്റഗ്രേറ്റർ ഫോർമുല നമുക്ക് ഒരു ഇന്റഗ്രേറ്റർ പ്രോബ്ലം സോൾവ് ചെയ്യാം നിങ്ങൾക്ക് ഈയൊരു സർക്യൂട്ട് തന്നാൽ അതിൽ വി സി സമം മൈനസ് ഒന്ന് പോയിന്റ് നാലു വോൾട്ട് ആണ് കപ്പാസിറ്റർ നു കുറുകെ സമയം ടി സമം പൂജ്യത്തിൽ ഒരു സ്റ്റെപ് വോൾടേജ് വി ഇൻ സമം മൈനസ് ടു വോൾട്സ് സമയം ടി സമം 0 ആകുമ്പോൾ എന്താണ് എൻറെ ആർ സി ടൈം കോൺസ്റ്റന്റ് ആർ സി ടൈം കോൺസ്റ്റന്റ് ആവശ്യം ആണ് കാരണം സമയം അഞ്ചു മില്ലി സെക്കന്റ് ആകുമ്പോൾ പത്തു പോയിന്റ് രണ്ടു വോൾട് ആണ് എന്റെ ഔട്ട്പുട്ട് വോൾടേജ് ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ സി ടൈം കോൺസ്റ്റന്റ് കാണാൻ എനിക്ക് ആദ്യം ഇന്റഗ്രേറ്റർ ഔട്ട്പുട്ട് വോൾടേജ് ഫോർമുല അറിയണം അതായത് വി ഓ സമം ഇപ്പോൾ ഞാൻ എവിടെ ടി കു വാല്യൂ കൊടുക്കുന്നു ടി ഈക്വൽ ടു അഞ്ചു മില്ലി സെക്കൻഡ് അപ്പോൾ എനിക്ക് ഇവിടെ മാറ്റം സീറോ ൽനിന്ന് അഞ്ചിലേക്കു ആർ ഒൺ സി ഒൺ സമം പോയിന്റ് എട്ടു ആറു രണ്ടു മില്ലി സെക്കൻഡ് നമുക്ക് വേറെ ഒരു ഉദാഹരണം നോക്കാം ഇതിനു പുറമെ ഇന്റഗ്രേറ്റർ ഉപയോഗിക്കുന്നത് ഒരു സിഗ്നലിനെ മാറ്റുവാൻ അല്ലെങ്കിൽ സിഗ്നലിൻറെ ആകാരം മാറ്റുവാൻ വേണ്ടി ആണ് ഇത് ഒരു ഷേപ്പ് ജനറേറ്റർ ആണ് ഞാനൊരു ഒരു സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു ട്രയാങ്കിൾ വേവ് ആണ് കിട്ടുന്നത് ഇത് നമുക്ക് പരീക്ഷണ വിഭാഗത്തിൽ കാണാം നമ്മൾ പരീക്ഷണം ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ പിന്നെ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എങ്ങനെയാണ് അതിൻറെ ഷേപ്പ് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ഈ ഒരു ചോദ്യത്തിൽ നമ്മളോട് ഓപ്ആമ്പ് ഇന്റഗ്രേറ്റർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ ഇൻപുട്ട് ഫ്രീക്വൻസി അഞ്ചു കിലോ ഹേർട്സ് എന്നും തന്നിട്ടുണ്ട് ഇവിടെ പറയുന്നത് അഞ്ചു കിലോ ഹേർട്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ ആണ് നമുക്ക് ഇവിടെ വാല്യൂ അറിയാം പിന്നെ ഇക്വേഷനും അറിയാം ആർ സമം പത്തു കിലോ ഓം സി സമം പത്തു നാനോ ഫാരഡ് എന്ന് തന്നിട്ടുണ്ട് ഇൻപുട് ഒരു സ്ഥിരമായ വാല്യൂ ആണ് ഇവിടുത്തെ വോൾട്ടേജ് രണ്ടു വോൾട്ട് പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് പൂജ്യം തൊട്ടു ദശാംശം ഒന്ന് മില്ലി സെക്കന്റ് വരെ അത് ഒരു സ്ഥിരമായ വാല്യൂ ആണ് പിന്നേ ദശാംശം ഒന്ന് മില്ലി സെക്കന്റ് മുതൽ ദശാംശം രണ്ടു മില്ലി സെക്കന്റ് വരെ എന്താണ് ഒരു ഹാഫ് പിരീഡിന്റെ ഔട്ട്പുട്ട് അത് ഒരു റാംപ് ആണ് ഇപ്പോൾ ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓരോ ഹാഫ് പിരീഡിലെയും ഔട്ട്പുട്ട് ഒരു റാംപ് ആണ് പിന്നെ പ്രതീക്ഷിക്കുന്നു ഔട്ട്പുട്ട് ഒരു ട്രൈആംഗുലര് വേവ് ആണ് ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നത് എന്നു നോക്കാം കാപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് കാരണം ആണ് ഔട്ട്പുട്ട് ലെ വേവ് ഇങ്ങനെ ആകുന്നത് എനിക്ക് ഔട്ട്പുട്ട് ലെ ഒരു ട്രിയൻഗുലര് വേവ് ആണ് കിട്ടുന്നത് ഇങ്ങനെയാണ് ഒരു ഇന്റഗ്രേറ്റർ പ്രവർത്തിക്കുന്നത് അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഫറെൻഷ്യറ്റർ കാണിച്ചുതരാം ഞാൻ ഒരു ഇന്റഗ്രേറ്ററിന്റെ എക്സാമ്പിൾ എടുത്താൽ അത് നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ തമ്മിൽ വിത്യാസം എങ്ങനെ ആണ് എന്നു നോക്കിയാൽ ഇന്റഗ്രേറ്ററിൽ ഫീഡ്ബാക്ക് ഒരു കപ്പാസിറ്ററിൽ കൂടെയാണ് ഒരു ഇന്റഗ്രേറ്റർ എന്നുവച്ചാൽ ഇൻപുട്ടിൽ റെസിസ്റ്റൻസും ഫീഡ്ബാക്കിൽ കപ്പാസിറ്ററും ആണ് ഇപ്പോൾ ഞാൻ അതിനെ മാറ്റിയാൽ അതായത് ഫീഡ് ബാക്കിൽ റെസിസ്റ്റൻസും ഇൻപുട്ടിൽ കപ്പാസിറ്ററും കൊടുത്താൽ എനിക്ക് ഡിഫറെൻഷ്യറ്റർ കിട്ടും അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് ഡിഫറെൻഷ്യറ്റർ നോക്കാം അതുവരെ നിങ്ങൾ ഇന്റഗ്രേറ്റർ നോക്കുക ബ്രെഡ് ബോർഡിൽ ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ നോക്കൂ ഇതു വളരെ എളുപ്പമാണ് നിങ്ങൾക്കു ഒരു ഫങ്ക്ഷൻ ജനറേറ്റർ വേണം ഒരു ഡിസി പവർ സപ്ലൈ വേണം കാരണം നിങ്ങൾ ഒപാമ്പാണ് ഉപയോഗിക്കുന്നത് ഒരു 741 ഒപാമ്പ് ആണെങ്കിൽ നിങ്ങൾ ഇതിൽ പ്ലസ് മൈനസ് പതിനഞ്ചു വോൾട്ട് കൊടുക്കണം ഇനി നിങ്ങൾ ഇൻപുട്ട് ആയി പ്ലസ് മൈനസ് 2 വോൾട് സ്ക്വയർ വേവ് കൊടുക്കുന്നു ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ഓസ്സിലോസ്കോപ്പിൽ കാണാം അത് സി ർ ഓയിലോ ഡി എസ് ഓയിലോ ആകാം ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ ഒരു ട്രയാങ്കിൾ വേവ് കിട്ടും അതായത് ഇന്റഗ്രേറ്റർ ഒരു വേവ്ഫോം ജനറേറ്റർ ആണ് ഡിഫറെൻഷ്യറ്റർ ഇന്റഗ്രേറ്റർ രണ്ടു സർക്യൂട്ടും ഫിൽട്ടേർസ് ആണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് ഫിൽട്ടേർസ് നോക്കാം അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് പെട്ടെന്ന് ഓപ്ആംപ് എങ്ങനെ ഡിഫറെൻഷ്യറ്റർ ആയി പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം